ക്ലാസ്സിഫിക്കേഷൻ നമുക്ക് ഡാറ്റാ സയൻസിൽ ഉപയോഗിക്കുന്ന അൽഗോരിതങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ലെക്ചർ തുടരാം ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ്സിഫിക്കേഷൻ പ്രോബ്ലെത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ചു അൽഗോരിതങ്ങൾ ആണ് ഇവിടെ ഞാൻ വീണ്ടും ക്ലാസ്സിഫിക്കേഷൻ പ്രോബ്ലത്തെക്കുറിച്ച് പരാമർശിച്ചു കൊണ്ട് തുടങ്ങുകയാണ് ഇത് നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതാണ് എങ്കിലും ഈ ലെക്ചറിന്റെ ഈ ഭാഗത്തിനുവേണ്ടി ഞാൻ അത് ഒന്നുകൂടി വിശദീകരിക്കാം ഇപ്പോൾ ഞാൻ പലതരം ക്ലാസ്സിഫിക്കേഷൻ പ്രോബ്ലങ്ങളെക്കുറിച്ച് പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോകാം തുടർന്ന് ഈ ക്ലാസ്സിഫിക്കേഷൻ പ്രശ്നങ്ങളിൽ നമ്മൾ അന്വേഷിക്കുന്ന ചില സവിശേഷതകൾ വിവരിക്കാം അതിനുശേഷം ക്ലാസ്സിഫിക്കേഷൻ പ്രോബ്ലം പരിഹരിക്കുന്നതിന് ഉപയോഗിക്കാവുന്ന മൂന്ന് സാങ്കേതിക വിദ്യകൾ ഞാൻ പഠിപ്പിക്കാം പൊതുവെ ക്ലാസ്സിഫിക്കേഷന് ഉപയോഗിക്കുന്ന പല ടെക്നിക്കുകളും മോഡിഫൈ ചെയ്താൽ ഫങ്ക്ഷൻ അപ്പ്രോക്സിമഷൻ ചെയ്യുന്നതിന് ഉപയോഗിക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഫങ്ക്ഷൻ അപ്പ്രോക്സിമഷന് ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ മോഡിഫൈ ചെയ്താൽ ക്ലാസ്സിഫിക്കേഷൻ പ്രോബ്ലത്തിനും ഉപയോഗിക്കാം എന്നുള്ളത് ഈ ലെക്ച്ചറുകളിൽ നമ്മൾ ഈ അൽഗരിതങ്ങൾ നോക്കുകയും അവയ്ക്ക് ഒരു ക്ലാസ്സിഫിക്കേഷൻ ഫ്ലേവർ നൽകുകയും ചെയ്യും അത് നമ്മൾ അൽഗോരിതം വിവരിക്കുന്ന രീതിയിലൂടെയും അൽഗോരിതം ഉപയോഗിച്ച കേസ് പഠനങ്ങളിലൂടെയും ആയിരിക്കും അതിനാൽ ക്ലാസ്സിഫിക്കേഷൻ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം മുമ്പ് നമ്മൾ ഇത് വിവരിച്ചിട്ടുണ്ട് ഇതിനായി ഞാൻ വിവിധ ക്ലാസുകളിലേക്ക് ഡാറ്റ ലേബൽ ചെയ്ത് നൽകിയിട്ടുണ്ട്ഈ അതുപയോഗിച്ച് ക്ലാസുകളെ വേർതിരിച്ചറിയാൻ കഴിയുന്ന ഒരു അൽഗോരിതം വികസിപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാം അതുപോലെ വികസിപ്പിച്ചെടുത്ത അൽഗോരിതം ഈ ക്ലാസുകളെ എങ്ങനെ വേർതിരിക്കുന്നുവെന്ന് നമുക്ക് അറിയാം ഒരു പുതിയ ഡാറ്റാ വരുമ്പോൾ ഞാൻ അത് എന്റെ അൽഗോരിതത്തിനു നൽകുകയും യഥാർത്ഥത്തിൽ വ്യത്യസ്ത K ലേബലുകൾ ഉണ്ടെങ്കിൽ അൽഗോരിതം പുതിയ ഡേറ്റയെ ഈ K ഗ്രൂപ്പുകളിലൊന്നിലേക്ക് ലേബൽ ചെയ്യുകയും വേണം അതായത് ഇതിനെ സാധാരണയായി കാൽസിഫിക്കേഷൻ പ്രോബ്ലം എന്ന് വിളിക്കുന്നു അതിനാൽ ചിത്രപരമായി ഞങ്ങൾ അതിനെ ഇവിടെ പ്രതിനിധീകരിക്കുന്നു ഇവിടെ ഒരു കൂട്ടം ഡാറ്റയുണ്ട് എന്ന്നമുക്ക് പറയാം ഇപ്പോൾ ഞാൻ ഒരു ക്ലാസിഫയർ എടുക്കുകയാണെങ്കിൽ അത് ഇതുപോലുള്ള ലൈൻ ക്ലാസിഫയർ ആകാം നമ്മൾ ഇത് മുമ്പ് ലീനിയർ ആൾജിബ്രയിൽ കണ്ടിട്ടുണ്ടെന്ന് ഓർക്കുക നമുക്ക് ഈ പിക്ച്ചറിനെ രണ്ട് പകുതിയായി തിരിക്കാം ഈ പകുതി ക്ലാസ് 1 ആണെന്നും മറ്റേ പകുതി ക്ലാസ് 2 ആണെന്നും നമുക്ക് പറയാൻ കഴിയും ഇപ്പോൾ എനിക്ക് ഒരു ചെറിയ പ്രദേശത്ത് മാത്രംഡാറ്റാ പോയിന്റുകൾ ഉള്ളപ്പോൾ ഈ ക്ലാസിഫയർ ഒരു പരിധിയില്ലാത്ത ക്ലാസ്സിഫിക്കേഷൻ റീജിയൻ നിർമിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ നിങ്ങൾക്ക് പരിധികളുള്ള ക്ലാസിഫയറുകളുമായി വരാം നമ്മൾ അത് പിന്നീട് ചർച്ച ചെയ്യും എന്നാൽ ഇവിടെ ഇപ്പോൾ എനിക്ക് ഇതുപോലൊരു പോയിന്റ് ലഭിക്കുകയാണെങ്കിൽ ഈ പോയിന്റ് മിക്കവാറും സ്റ്റാർ പോയിന്റുകൾ സൂചിപ്പിക്കുന്ന ക്ലാസ്സിൽ ഉൾപ്പെട്ടിരിക്കാമെന്ന് ക്ലാസ്ഫയർ പറയാൻ സാധ്യതയുണ്ട് അതാണ് സംഭവിക്കുക അതുപോലെ തന്നെ എനിക്ക് ഇവയ്ക്കിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് ഈ ക്ലാസിലേക്ക് ആയിരിക്കും തരംതിരിക്കുക ഇപ്പോൾ നമുക്ക് രണ്ട് തരം പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാം ലളിതമായ തരം ക്ലാസ്സിഫിക്കേഷൻ പ്രോബ്ലാമാണ് ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം അടിസ്ഥാനപരമായി ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രശ്നങ്ങൾ എസ് ഓർ നോ പോലെയുള്ള 2 ക്ലാസുകൾ ഉള്ളിടത്താണ് ഉപയോഗിക്കുന്നത് അതിനാൽ ഉദാഹരണങ്ങൾ നോക്കാം നിങ്ങൾക്ക് ഒരു പ്രോസസ്സിന്റെയോ ഉപകരണത്തിന്റേയോ ഡാറ്റ ഉണ്ടെങ്കിൽ ഈ ഡാറ്റയെ ഉപകരണത്തിന്റെ നോർമൽ ബിഹേവിയർ അല്ലെങ്കിൽ ഉപകരണത്തിന്റെ അബ്നോർമൽ ബിഹേവിയർ എന്നിങ്ങനെ തരംതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം യഥാർത്ഥത്തിൽ അത് വെറും ബൈനറി ക്ലാസ്സിഫിക്കേഷൻ മാത്രമാണ് അതിനാൽ എനിക്ക് ഒരു പുതിയ ഡാറ്റ ലഭിക്കുകയാണെങ്കിൽ ആ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഉപകരണങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് ശരിയായി പ്രവർത്തിക്കുന്നില്ലയോ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് കുറച്ച് ടിഷ്യു സാമ്പിൾ ലഭിക്കുന്നുവെന്ന് വിചാരിക്കുക നിങ്ങൾ ആ സാമ്പിളിനെ ചില മാർഗ്ഗങ്ങളിലൂടെയും അതിന്റെ സവിശേഷതകൾ നോക്കിയും അതിനെ ക്യാൻസറസ് അല്ലെങ്കിൽ നോൺ ക്യാൻസറസ് സാമ്പിൾ എന്ന് തരംതിരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് മറ്റൊരു ഉദാഹരണം ആണ് അതായത് അത് ബൈനറി ക്ലാസ്സിഫിക്കേഷന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ പ്രോബ്ലത്തിന്റെ സങ്കീർണ്ണമായ പതിപ്പിനെ നമ്മൾ മൾട്ടിക്ലാസ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം എന്നാണ് വിളിക്കുന്നത് ഇവിടെ എനിക്ക് വിവിധ ക്ലാസുകളിൽ നിന്നുള്ള ലേബലുകൾ ഉണ്ട് അതിനാൽ ഇവിടെ എനിക്ക് 2 എണ്ണം മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു പൊതു മൾട്ടിക്ലാസ് പ്രോബ്ലത്തിൽ എനിക്ക് K ക്ലാസുകൾ ഉണ്ടായിരിക്കാം നമ്മൾ മുൻപ് വിവരിച്ച ഉപകരണ ഉദാഹരണത്തിലേക്ക് വീണ്ടും പോകുന്നു അത് ഒരു ക്ലാസിക് ഉദാഹരണം ആണ് ഉപകരണങ്ങൾ സാധാരണമോ അസാധാരണമോ ആണെന്ന് പറയുന്നതിനു പകരം ഈ അസാധാരണതയെ നമുക്ക് പല ഫോൾട് ക്ലാസ്സുകളായി തരം തിരിക്കാം അതായത് ഫോൾട് 1 ഫോൾട് 2 ഫോൾട് 3 എല്ലാതിനെയും ഒന്നിച്ച് പരിഗണിക്കുമ്പോൾ നോർമൽ ഫോൾട് 1 ഫോൾട് 2 ഫോൾട് 3 അതായത് നമുക്ക് ഇപ്പോൾ ഒരു 4 ക്ലാസ് പ്രോബ്ളവും ഉണ്ട് ഇവിടെ ഞാൻ ഡേറ്റാസെറ്റ് ഒന്ന് വ്യാഖ്യാനിച്ചാൽ ഡേറ്റയെ ലേബൽ ചെയ്തിരിക്കുന്നത് നോർമൽ എന്നോ ഫോൾട്ട് 1 സംഭവിക്കുമ്പോൾ ശേഖരിക്കപ്പെട്ട ഡാറ്റ എന്നോ ഫോൾട്ട് 2 സംഭവിക്കുമ്പോൾ ശേഖരിക്കപ്പെട്ട ഡാറ്റ എന്നോ ഫോൾട്ട് 3 സംഭവിക്കുമ്പോൾ ശേഖരിക്കപ്പെട്ട ഡാറ്റ എന്നോ ആണ് അപ്പോൾ ഒരു ന്യൂ ഡേറ്റ പോയിന്റ് വരുമ്പോൾ അതിനെ നോർമൽ എന്നോ മറ്റോ ആണെങ്കിൽ ആ കേസിൽ നമുക്ക് ഒന്നും ചെയ്യേണ്ടതില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഫോൾട് ക്ലാസ്സിലോട്ട് തരം തിരിച്ചു ആ ക്ലാസിനു അനുയോജ്യമായ ആക്ഷൻ എടുക്കണം അതുപോലെ ഒരു ക്ലാസ്സിഫിക്കേഷൻ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ ഒരു പ്രോബ്ളത്തിന്റെ സങ്കീർണ്ണത സാധാരണയായി ഡാറ്റ എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് മനസിലാക്കാം അതുപോലെ ഡേറ്റ ഓർഗനൈസ്ഡ് ആണെങ്കിൽ നമുക്ക് ബൈനറി ക്ലാസ്സിഫിക്കേഷനെക്കുറിച്ച് സംസാരിക്കാം അതുപോലെ തന്നെ ഇതിലെ പല ആശയങ്ങളും മൾട്ടിക്ലാസ്സ് ക്ലാസ്സിഫിക്കേഷൻ പ്രോബ്ലത്തിലും ഉപയോഗിക്കാവുന്നതാണ് ബൈനറി ക്ലാസ്സിഫിക്ഷൻ പ്രോബ്ലത്തിൽ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയാണ് ഡേറ്റ ഓർഗനൈസ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഡാറ്റയെ ലീനിയർലി സെപ്പറബിൾ എന്ന് പറയാം ഇവിടെ ഞാൻ ഒരു ഹൈപ്പർ പ്ലെയിൻ ഉപയോഗിച്ച് ഡേറ്റയെ ഹൈപ്പർ പ്ലെയിനിന്റെ രണ്ടു വശത്തായിട്ടു വേർതിരിച്ചടുന്നു അതെനിക്കൊരു മികച്ച ക്ലാസ്സിഫിക്കേഷൻ നൽകുന്നു ഈ തരത്തിലുള്ള പ്രോബ്ലെംസിനെ നമ്മൾ ലീനിയർലി സെപ്പറബിൾ പ്രോബ്ലംസ് എന്ന് പറയുന്നു അതായതു നമ്മൾ ലീനിയർലി സെപ്പറബിൾ പ്രോബ്ലംസ് നോക്കുമ്പോൾ ക്ലാസ്സിഫിക്കേഷൻ പ്രോബ്ലംസ് തിരിച്ചരിടുകയും അത് ഹൈപ്പർ പ്ലെയിൻ ഉപയോഗിച്ച് ക്ലാസ്സിഫൈ ചെയ്യുകയും വേണം അതിനാൽ ഇവയെ ബൈനറി ക്ലസ്സിഫിക്കേഷനിലെ സിമ്പിൾ പ്രോബ്ലംസ് എന്ന് ഞാൻ വിളിക്കും എന്നിരുന്നാലും എനിക്ക് വലതുവശത്ത് ഒരു ചിത്രമുണ്ട് ഇതും ഒരു ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലെമാണ് നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ ഈ ഡാറ്റയും ക്ലാസ് 1 ൽ നിന്നുള്ളതാണ് ഈ ഡാറ്റ ക്ലാസ് 2 ൽ നിന്നുള്ളതാണ് എന്നിരുന്നാലും ഇപ്പോൾ നമ്മൾ ഒരു ഹൈപ്പർ പ്ലെയിൻ വരയ്ക്കാൻ പോവുകയാണ് അതിനാൽ ഞങ്ങൾ ഇവിടെ ഒരു ഹൈപ്പർ പ്ലെയിൻ വരയ്ക്കുകയും ഇതെല്ലാം ക്ലാസ് 1 ആണെന്നും ഇത് ക്ലാസ് 2 ആണെന്നും പറയുകയാണെങ്കിൽ ഈ പോയിന്റുകൾ ശരിയായി ക്ലാസ്സിഫൈ ചെയ്യുകയോ ഈ പോയിന്റുകൾ തെറ്റായി ക്ലാസ്സിഫൈ ചെയ്യുകയോ തരംതിരിക്കപ്പെടുകയോ ചെയ്യുന്നു ഇപ്പോൾ ഞാൻ ഇതുപോലൊരു ഹൈപ്പർ പ്ലെയിൻ വരക്കുകയാണെങ്കിൽ ഈ ഡേറ്റ പോയിന്റുകൾ തെറ്റായ രീതിയിൽ ക്ലാസ്സിഫൈ ചെയ്തതായി നമുക്ക് മനസ്സിലാക്കാം അതിനാൽ എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങൾ ഈ ഒരു അവസ്ഥയിലോട്ടാണ് വരുന്നതെങ്കിൽ ഈ പോയിന്റുകളാണ് തെറ്റായി ക്ലാസ്സിഫൈ ചെയ്യുന്നത് അതായത് ഇവിടെ ഒരു രീതിയിലും രണ്ടായി ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന ഹൈപെർ പ്ലെയിൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നാൽ ഇത് അർത്ഥമാക്കുന്നത് ഇത് പരിഹരിക്കാൻ കഴിയാത്ത പ്രോബ്ലമാണെന്നല്ല ഇത് അർത്ഥമാക്കുന്നത്ലീ ഇതൊരു ലീനിയർ സെപ്പറബിൾ പ്രോബ്ലം അല്ലെന്നതാണ് ഈ തരത്തിലുള്ള പ്രോബ്ലംസ് ലീനിയർലി നോൺ സെപ്പേറബിൾ പ്രോബ്ലംസ് എന്നാണ് അറിയപ്പെടുന്നത് അതായത് നിങ്ങൾ ഒരു ഹൈപെർ പ്ലെയിൻഉണ്ടാക്കണമെന്നില്ല ലളിതമായി പറഞ്ഞാൽ ലേമാൻ ടേംസിൽ ഒരു കർവ്ഡ് സർഫേസിന്റെ ആവശ്യമേയുള്ളു ഇത് ഒരു ഉദാഹരണമാണ് നിങ്ങള്ക്ക് ഇതുപോലെ ഒരു കർവ്ഡ് സർഫേസ് ഉണ്ടാക്കുവാൻ സാധിച്ചാൽ നിനൽക്കതിനെ ഒരു ഡിസിഷൻ ഫങ്ക്ഷനായി ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് കെർവിന്റെ ഒരു വശത്തുള്ള ഡേറ്റ പോയിന്റസിനെ ക്ലാസ് 1 ലെ അംഗമെന്നും മറ്റേ വശത്തുള്ള ഡേറ്റ പോയിന്റസിനെ ക്ലാസ് 2 ലെ അംഗമെന്നും തരംതിരിക്കാം അതിനാൽ പൊതുവെ ക്ലാസ്സിഫിക്കേഷൻ പ്രോബ്ലങ്ങൾ നോക്കുമ്പോൾ അവ ലീനിയർലി സെപ്പറബിൾ ആണോ അതോ നോൺ സെപ്പറബിൾ എന്ന് അറിയേണ്ടതുണ്ട് അതുപോലെ ഡേറ്റ സയൻസിന്റെ വീക്ഷണത്തിൽ ഈ പ്രോബ്ലം ഇപ്പോൾ വളരെ ദുഷ്കരമാവുകയാണ് എന്തുകൊണ്ടെന്നാൽ ഒരു ലീനിയർ സെപ്പറബിൾ പ്രോബ്ലത്തിന്റെ ഡിസിസിഷൻ ഫങ്ക്ഷൻ നമ്മൾ ചെക്കുചെയ്യുമ്പോൾ അത് ഒരു ഹൈപെർ പ്ലെയിൻ ആണ് എന്ന് നമുക്കറിയാം ഇനി നമുക്ക് ഇത് ബൈനറി ക്ലാസ്സിഫിക്കേഷന്റെ കേസിൽ എങ്ങനെയാണെന്ന് നോക്കാം എന്നിരുന്നാലും നിങ്ങൾ നോൺ ലീനിയർ ഡിസിഷൻ ബൌണ്ടറിസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിരവധി ഫംഗ്ഷണൽ ഫോമുകൾ ഉണ്ട് അവയിൽ ഏതാണ് ഹോൾഡ് ചെയ്യുന്നതെന്ന് നോക്കാം ഉദാഹരണത്തിന് ചിലപ്പോൾ ഒരാൾക്ക് ഇതുപോലൊരു തീരുമാനത്തിലേക്ക് വരാം അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്തതുപോലെയുള്ള തീരുമാനത്തിലേക്കും വരാം അതിനാൽ നിരവധി സാധ്യതകൾ ഉണ്ട് ഇപ്പോൾ ഈ സാധ്യതകളിൽ ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നത് അൽഗോരിതം തന്നെ കണ്ടുപിടിക്കേണ്ട ഒന്നാണ് അതിനാൽ നിരവധി സാധ്യതകൾ ഉള്ളതിനാൽ ഇവ പരിഹരിക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളായി മാറുന്നു അതിനാൽ ഞങ്ങളീ വിശദീകരിച്ചതെല്ലാം ബൈനറി ക്ലാസ്സിഫിക്കേഷൻ പ്രോബ്ലത്തിനുവേണ്ടി ഉള്ളതാണ് ഈ ആശയങ്ങളിൽ പലതും മൾട്ടി ക്ലാസ് പ്രശ്നങ്ങളിലേക്ക് വിവർത്തനം ചെയ്യുന്നു ഉദാഹരണത്തിന് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഇവിടെ ഇതുപോലുള്ള 3 ക്ലാസുകളിൽ നിന്നുള്ള ഡാറ്റ എനിക്കുണ്ട് ഇവ 3 ക്ലാസുകളാണ് എനിക്ക് ഈ 3 ക്ലാസുകൾ വേർതിരിക്കണമെങ്കിൽ ലീനിയർ രീതികളിലൂടെ വേർതിരിക്കാൻ കഴിയുമോ എന്ന് സ്വയം ചോദിക്കുക ഇപ്പോൾ ഇത് ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലാത്തിൽ നിന്ന് അൽപം വ്യത്യസ്തമാണ് കാരണം ഞങ്ങൾക്ക് ഒരു ഡിസിഷൻ ഫംഗ്ഷൻ മാത്രമേ ആവശ്യമുള്ളൂ ഒരു ഡിസിഷൻ ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ പോയിന്റ് ക്ലാസ് 1 ലേതോ ക്ലാസ് 2 ലേതോ ആണെന്ന് പറയാം മൾട്ടി ക്ലാസ് പ്രോബ്ലങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ ഡിസിഷൻ ഫംഗ്ഷനുകൾ കൊണ്ടുവരാം കൂടുതൽ ഡിസിഷൻ ഫംഗ്ഷനുകൾ എന്നത് കൂടുതൽ ഹൈപ്പർ പ്ലെയിനുകളെയാണ് അർത്ഥമാക്കുന്നത് അതിനുശേഷം ചില പ്രത്യേക ലോജിക്കുകൾ ഉപയോഗിച്ചാൽ ഒരു ഡാറ്റാ പോയിന്റിനെ ഏതു ക്ലാസ്സിൽ ഉൾപ്പെടുത്താമെന്ന് മനസ്സിലാക്കാൻ കഴിയും അതിനാൽ എനിക്ക് ഇവിടെ ഇതുപോലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ക്ലാസ് 1 ഇത് ക്ലാസ് 2 ഇത് ക്ലാസ് 3 എന്ന് പറയാം എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഇനിപ്പറയുന്നതാണ് എനിക്ക് ഇതുപോലൊരു ഹൈപ്പർപ്ലെയ്ൻ ചെയ്യാൻ കഴിയും ഇപ്പോൾ എനിക്ക് ഈ 2 ഹൈപ്പർപ്ലെയ്നുകൾ ഉണ്ട് പിന്നെ എനിക്ക് സാധ്യമായ 4 കോമ്പിനേഷനുകൾ ഉണ്ട് ഉദാഹരണത്തിന് ഞാൻ ഹൈപ്പർപ്ലെയ്ൻ 1 ഉം ഹൈപ്പർപ്ലെയ്ൻ 2 ഉം 2 ഡിസിഷൻ ഫംഗ്ഷനുകളായി എടുക്കുകയാണെങ്കിൽ എനിക്ക് 4 മേഖലകൾ സൃഷ്ടിക്കാൻ കഴിയും ഉദാഹരണത്തിന് എനിക്ക് സൃഷ്ടിക്കാൻ കഴിയും അതിനാൽ ഒരു പ്രത്യേക ഹൈപ്പർപ്ലെയ്നിന് 2 ഹാഫ് സ്പെയ്സുകൾ അതായത് ഒരു പോസിറ്റീവ് ഹാഫ് സ്പെയ്സും ഒരു നെഗറ്റീവ് ഹാഫ് സ്പെയ്സും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ എനിക്ക് ഇവിടെ ഇതുപോലൊന്ന് ഉണ്ടെങ്കിൽ അടിസ്ഥാനപരമായി അത് പറയുന്നത് പോയിന്റ് ഹൈപ്പർപ്ലെയ്നുകൾ 1 ന്റെയും ഹൈപ്പർപ്ലെയ്ൻ 2 ന്റെയും പോസിറ്റീവ് ഹാഫ് സ്പെയ്സിലാണ് എന്നാണ് എനിക്ക് ഇതുപോലെ ഒരു പോയിന്റ് ഉള്ളപ്പോൾ പോയിന്റ് പോസിറ്റീവ് ആണെന്ന് ഇത് പറയുന്നു ഈ സാഹചര്യത്തിൽ ഹൈപ്പർപ്ലെയ്ൻ 1 ന്റെ ഹാഫ് സ്പേസും ഹൈപ്പർപ്ലെയ്ൻ 2 ന്റെ ഹാഫ് സ്പേസും രണ്ട് ഹൈപ്പർപ്ലെയ്നുകളുടെയും നെഗറ്റീവ് ഹാഫ് സ്പേസിലാണെന്ന് നിങ്ങൾ പറയും അതിനാൽ ഇപ്പോൾ നിങ്ങൾ മൾട്ടി ക്ലാസ് പ്രോബ്ലങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഹൈപ്പർ സ്പേസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഹൈപ്പർ പ്ലെയിനുകളെ ആശ്രയിച്ച് നിങ്ങൾക്ക് ഒരു നിശ്ചിത എണ്ണം പോസ്സിബിലിറ്റികൾ ലഭിക്കും അതിനാൽ ഈ സാഹചര്യത്തിൽ ഞാൻ ഈ 2 ഹൈപ്പർ പ്ലെയിനുകൾ ഉപയോഗിക്കുമ്പോൾ അടിസ്ഥാനപരമായി ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ 4 സ്പേസുകൾ ലഭിച്ചു അതിനാൽ എനിക്ക് 3 ക്ലാസുകളുള്ള ഈ മൾട്ടി ക്ലാസ് പ്രോബ്ലാത്തിൽ ഒരു ക്ലാസ്സിൽ നിന്നുള്ള ഡാറ്റ ഇവിടെ വരാൻ സധ്യതയുണ്ടെങ്കിൽ മറ്റൊരു ക്ലാസ്സിലെ നിന്നുള്ള ഡാറ്റയും ഇവിടെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ മൂന്നാമതൊരു ക്ലാസ്സിൽ നിന്നുള്ള ഡാറ്റയും ഇവിടെ വരാൻ സാധ്യതയുണ്ട് ഈ 3 ക്ലാസ് പ്രശ്നത്തെ തരംതിരിക്കാൻ ഈ 2 ഹൈപ്പർ പ്ലെയിനുകളും അനുബന്ധ ഡിസിഷൻ ഫങ്ക്ഷൻസും ഉപയോഗിക്കാം അതിനാൽ മൾട്ടി ക്ലാസ് പ്രോബ്ലങ്ങൾ വിവരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഹൈപ്പർ പ്ലെയിനുകൾ നോക്കുന്നു തുടർന്ന് ഈ ഹൈപ്പർ പ്ലെയിനുകൾ എങ്ങനെ ഉത്ഭവിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് ഈ ക്ലാസുകൾ ഹാഫ് സ്പേസുകളിൽ അല്ലെങ്കിൽ ഹാഫ് സ്പേസുകളുടെ കോമ്പിനേഷനുകളിൽ സെപ്പറേറ് ചെയ്യാനാവും അതിനാൽ ഇത് മറ്റൊരു പ്രധാന ആശയമാണ് ഇത് നമ്മൾ മൾട്ടി ക്ലാസ് പ്രോബ്ലങ്ങളിലേക്ക് പോകുമ്പോൾ ഓർത്തിരിക്കേണ്ടതാണ് അതിനാൽ നമ്മൾ മൾട്ടി ക്ലാസ് പ്രോബ്ലങ്ങൾ പരിഹരിക്കുമ്പോൾ നമുക്ക് അവ നേരിട്ട് മൾട്ടി ക്ലാസ് പ്രോബ്ലങ്ങളായി കണക്കാക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിരവധി ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലങ്ങൾ പരിഹരിക്കാനും ഈ ക്ലാസ്സിഫിക്കേഷൻ ഫലങ്ങളുടെ മറുവശത്ത് ഒരു ലോജിക്ക് കൊണ്ടുവരാനും അതിന്റെ ഫലമായി നിങ്ങൾക്കുള്ള മൾട്ടിപ്പിൾ ക്ലാസുകളിലൊന്നിലേക്ക് അത് ലേബൽ ചെയ്യാനും കഴിയും അതിനാൽ ക്ലാസ്സിഫിക്കേഷൻ പ്രോബ്ലങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടും എന്നതിനെക്കുറിച്ചുള്ള ചില അടിസ്ഥാന ആശയപരമായ ആശയങ്ങൾ ഇവ നൽകുന്നു പ്രത്യേകിച്ചും ബൈനറി ക്ലാസ്സിഫിക്കേഷൻ പ്രോബ്ലങ്ങളും മൾട്ടി ക്ലാസ് ക്ലാസ്സിഫിക്കേഷൻ പ്രോബ്ലങ്ങളും ഇവിടെ നമ്മൾ പരിശോധിക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാന ആശയങ്ങൾ ഈ പ്രോബ്ലങ്ങൾ ലീനിയർലി സെപ്പറബിൾ ആണോ അതോ ലീനിയർലി നോൺ സെപ്പറബിൾ ആണോ എന്നതാണ് ലീനിയർലി നോൺ സെപ്പറബിൾ പ്രോബ്ലങ്ങൾക്ക് ഒന്നിലധികം ഓപ്ഷനുകൾ ഉണ്ട് അതിൽ ഒരു മാർഗം കേർണൽ മെത്തേഡ് എന്ന മനോഹരമായ ആശയത്തിലൂടെയാണ് നോൺലീനിർ സർഫേസുകൾ പരിശോധിക്കുന്നതിന്നു നിരവധി നോൺലീനിയർ ഫങ്ക്ഷനുകൾ ഇപ്പോഴും ചില നിബന്ധനകൾക്ക് വിധേയമായി ഉപയോഗിക്കാറുണ്ട് ലളിതമായത് ഉപയോഗിച്ച് പരിശോധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അതിനെ ലീനിയർ മെത്തേഡുകൾ എന്ന് വിളിക്കാൻ പോകുന്നു ഞാൻ പിന്നീട് ഇത് കോഴ്സിൽ വിശദീകരിക്കാം അതിനാൽ ഇവിടുത്തെ ഐഡിയ എന്തെന്നാൽ ചില നിയമങ്ങൾ അനുസരിക്കുന്ന ചില രൂപത്തിലുള്ള നോൺ ലീനിയർ ഫംഗ്ഷനുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ നിയമങ്ങളെ സാധാരണയായി നിങ്ങൾക്ക് കേർണൽ ട്രിക്സ് എന്ന് വിളിക്കാം അപ്പോൾ നിങ്ങള്ക്ക് ഹൈപ്പർ പ്ലെയിനിൽ എന്തൊക്കെ ആശയങ്ങൾ ഉപയോഗിച്ചോ ആ ആശയങ്ങൾ എല്ലാം ആ ക്ലാസ് പ്രോബ്ലങ്ങൾ പരിഹരിക്കുന്നതിനും ഉപയോഗിക്കാം അതിനാൽ നമുക്ക് ലീനിയർലി നോൺ സെപ്പറബിൾ ആയ പ്രോബ്ലങ്ങൾ ഉണ്ടാകുമ്പോൾ കേർണൽ മെത്തേഡുകൾ പ്രധാനമാണ് അതിനാൽ ക്ലാസ്സിഫിക്കേഷൻ അൽഗോരിതങ്ങളുടെ ആശയപരമായ അടിത്തറയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഹ്രസ്വമായ ആശയം നൽകാനാണു ഞാൻ ശ്രമിച്ചത് ഇതിനെല്ലാം പിന്നിലുള്ള ഗണിതങ്ങളിൽ ചിലത് പഠിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഈ കോഴ്സിലും അതുപോലെ അഡ്വാൻസ് മെഷീൻ ലേണിംഗ് കോഴ്സുകളിലും ഇതിനെല്ലാം പിന്നിലുള്ള ഗണിതത്തെ കൂടുതൽ വിശദമായി പഠിക്കാം അതിനാൽ ക്ലാസ്സിഫിക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന അൽഗോരിതം ഉപയോഗിച്ചാണ് ആരംഭിക്കാൻ പോകുന്നത് അതിനുശേഷം നമ്മൾ KNN ക്ലാസ്സിഫയറും അതിനുശേഷം K മീൻ ക്ലസ്റ്ററിങ്ഗും പഠിക്കും k എന്നത് ക്ലസ്റ്ററിങ് ടെക്നിക്കുകളിൽ പെടുന്നതാണ് ഇപ്പോൾ സാധാരണയായി നിങ്ങൾക്ക് ഈ ക്ലസ്റ്ററിംഗ് ടെക്നിക്കുകൾ ഫംഗ്ഷൻ അപ്പ്രോക്സിമഷമുകളിൽ അല്ലെങ്കിൽ ക്ലാസ്സിഫിക്കേഷൻ പ്രോബ്ലങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയും കൂടാതെ ഞാൻ ഈ ടെക്നിക്കുകൾ പഠിപ്പിക്കാനും കേസ് സ്റ്റഡീസ് ഉപയോഗിക്കാനും പോകുന്നു ഈ ടെക്നിക്കുകൾ ഉപയോഗിച്ച് നമ്മൾ കാണാൻ പോകുന്ന റിസൾട്ടുകൾക്കു വ്യക്തമായ ക്ലാസ്സിഫിക്കേഷൻ ഫ്ലേവർ നൽകുവാനും സാധിക്കും അതിനാൽ അടുത്ത പ്രഭാഷണത്തിൽ ഞാൻ ലോജിസ്റ്റിക് റിഗ്രഷൻ ആരംഭിക്കും അപ്പോൾ നിങ്ങളെ കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു